എല്ലാവർക്കും സെൽ കൾച്ചർ ടെക്നോളജിയുടെ അധ്യയന പരമ്പരയിലേക്ക് സ്വാഗതം നമ്മൾ അപ്പോൾ നാലാമത്തെ വാരം തുടങ്ങുകയാണ് ഈ വാരത്തിൻറെ തുടക്കത്തിൽ നമ്മൾ പല തരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് നെക്കുറിച്ച് പറയും നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ന്റെ ജോലി അതിൻറെ പുരോഗമനം പിന്നെ അത് എങ്ങനെയാണ് ഒരു കോശത്തെ അതിൻറെ സബ്സ്ട്രേറ്റുമായി ബന്ധിപ്പിക്കുന്നത് എന്നിവയെക്കുറിച്ച് നോക്കി അപ്പോൾ ഇന്നു നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് സെൽ കൾച്ചർ ടെക്നോളജി ക്കു വേണ്ടി ഉപയോഗിക്കുന്ന സിന്തറ്റിക്കും നാച്ചുറലും ആയ പലതരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെ കുറിച്ചാണ് നമ്മൾ അതിൻറെ പലതരത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ഒരു കോശത്തെ ഒരിടത്ത് പറ്റിപിടിച്ച് ഇരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും സംസാരിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഭാഗം ഒന്ന് നമ്മൾ അപ്പോൾ നാലാമത്തെ വാരത്തിലേക്ക് കടക്കുകയാണ് W4 L1 നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെ കുറിച്ച് പറയാം അവയെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി നമുക്ക് അവയെ 2 വിശാലമായ വിഭാഗത്തിലേക്ക് മാറ്റാം അതായത് സിന്തറ്റിക് നാച്ചുറൽ നമ്മൾ നാച്ചുറലിനെകുറിച്ചാണ് പറയുന്നത് എങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവയെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ അവയെ നമുക്ക് ബയോടെക്നോളജിക്കൽ രീതിയിൽ എടുക്കാം അതായത് നമ്മൾ ജീൻസിനെ വേറെ പ്രോട്ടീൻ പുറത്തുവിടുന്ന സെൽ ലൈനിലേക്ക് കടത്തിവിട്ട് ഉണ്ടാക്കിയെടുക്കാം നാച്ചുറലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കൊളാജൻ മെട്രിക്സ് പ്രോട്ടീനെക്കുറിച്ച് അത് ഒരു എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ആണ് അവ കോശങ്ങളും കോശങ്ങളും തമ്മിൽ ഉള്ളതും കോശങ്ങളും മറ്റുതരത്തിലുള്ള കോശങ്ങളും തമ്മിലുള്ള ബന്ധവും ഉണ്ടാക്കാൻ സുപ്രധാനമായ പങ്കു വഹിക്കാറുണ്ട് നമ്മൾ അതിൻറെ പലതരത്തിലുള്ള വിഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല പിന്നെ നമുക്കുള്ളത് ലാമിനിൻ കോശങ്ങൾക്ക് ഇന്റഗ്രിൻ റിസെപ്റ്റർ ഉണ്ട് ഈ ലാമിനിൻ ഇന്റഗ്രിനുമായി ബന്ധപ്പെടുന്നു നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ സംസാരിക്കാം പിന്നെ ഈ കുടുംബത്തിൽ വേറെ ഉള്ളത് കൊളാജനും ലാമിനിനും ചേർന്നുണ്ടാകുന്ന ഒരു സംഭവം ജലാറ്റിൻ സിന്തറ്റിക് ഭാഗത്ത് നമുക്ക് പോളി ഡി ലൈസിൻ ഉണ്ട് അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം പിന്നെ നമുക്കുള്ളത് സൈലേൻ ആണ് അതായത് ഡി എ സൈലേൻ അതിൽ ടെട്രാമീൻ ഗ്രൂപ്പുകളുണ്ട് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം നമുക്ക് നമ്മുടെ ചർച്ച പലതരത്തിലുള്ള സിന്തറ്റിക് നാച്ചുറലിനെ കുറിച്ച് ചെയ്യാം സിന്തറ്റിക് കുറച്ച് എളുപ്പമാണ് കാരണം അതിലെ മിക്കതിനും ഒരു പ്രത്യേകതരത്തിലുള്ള ബന്ധമല്ല നമുക്ക് ആദ്യം പോളി ഡി ലൈസിനെ കുറിച്ച് സംസാരിക്കാം അത് ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട് ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റ് അതിൻറെ മുകളിൽ നിങ്ങൾ പോളി ഡി ലൈസിൻവെക്കണം പോളി ഡി ലൈസിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കണം ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഐസോമർ ആണ് lysine എന്ന് ഉദ്ദേശിക്കുന്നത് അമിനോആസിഡ് ആണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ലൈസിന്റെ ശൃംഖലയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ലൈസിൻ ഘടിപ്പിച്ചിരിക്കുന്നതാണ് ചിത്രം നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടി അയച്ചുതരുന്നതാണ് അത് ഏകദേശം ഇതുപോലെ വരും നിങ്ങൾ എഎഫ്എം നെ സർഫസ് അനാലിസിസിന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുപോലെ ആയിരിക്കും പരുപരുത്ത ഉപരിതലം അതിൻറെ കൂടെ അവ തുറന്നു വയ്ക്കപ്പെടുകയും ചെയ്യുന്നു അതിൽ ഒരു കൂട്ടം എൻ എച്ച് 3 ഗ്രൂപ്പ് ഉണ്ട് പോസിറ്റീവ് എൻ എച്ച് 3 ഗ്രൂപ്പ് പൊങ്ങിവരും ഇങ്ങനെ പൊങ്ങിവരും ഇതിൻറെ അഗ്രത്തിൽ എൻഎച്ച് 3 ഗ്രൂപ്പ് പൊങ്ങിവരും ഇവിടെ ഉണ്ടാകും അപ്പോൾ ഇവയെല്ലാം പൊങ്ങിവരും നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു തരത്തിലുള്ള സർഫസ് ഇൻട്രാക്ഷൻ ഗ്ലാസിൻറെ ഉപരിതലത്തിൽ ഉണ്ടാവുന്നത് ആണ് നിങ്ങൾ സബ്സ്ട്രേറ്റിനെ ഇതിനുമുകളിൽ വയ്ക്കുന്നതിനുമുമ്പ് നിങ്ങൾ ഗ്ലാസ് വളരെ നന്നായി വൃത്തിയാക്കേണ്ടത് ആണ് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അഡ്സോർപ്ഷൻ ആണ് ഇവിടെ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഉപരിതലത്തിൽ അഡ്സോർബ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു തരത്തിലുള്ള കെമിക്കൽ കപ്ലിങ്ങും പോളി ഡി ലൈസിൻ മോളിക്കൂളും സബ്സ്ട്രേറ്റുമായും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ പോളി ഡി ലൈസിനെ ഡിയയൊണൈസ്ട് വാട്ടറും ആയി കലക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ലായനി കിട്ടും ആ ലായനിയിൽ പോളി ഡി ലൈസിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും ഇതിൻറെ യഥാർത്ഥ കോൺസെൻട്രേഷൻ എത്ര വേണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള പ്രസിദ്ധീകരിച്ച ലിറ്ററേച്ചർ ഞാൻ നിങ്ങൾക്ക് തരാം എപ്പോഴും ഒരു കാര്യം ഓർത്തു വയ്ക്കുക പോളി ഡി ലൈസിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ആണെങ്കിൽ അത് കോശങ്ങളെ വളരാൻ സഹായിക്കില്ല പോളി ഡി ലൈസിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ അത് കോശങ്ങളെ വളരാൻ സമ്മതിക്കും ഒരു കാര്യം ഓർത്തു വയ്ക്കുക ഉപരിതലം മുഴുവനും നമ്മൾ ഇത് വെച്ച് മൂടണം അപ്പോൾ എപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമാണ് ഉപരിതലം മുഴുവനും മൂടുക എന്നത് ചിലപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ ബാക്കി വരാം അത് കുഴപ്പമില്ല നിങ്ങൾ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപരിതലം അനലൈസ് ചെയ്യണം ആദ്യം നിങ്ങൾ എ എം അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് ഉപരിതലം അനലൈസ് ചെയ്യണം നിങ്ങൾ ഇതിൻറെ ശരിയായ മിശ്രണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉപരിതലം ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും ചെയ്യാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അതിനെ നിരീക്ഷിക്കുകയും വേണം ആദ്യം നിങ്ങൾ ഫിസിക്കൽ സർഫസ് അനാലിസിസ് ചെയ്യണം രണ്ടാമത് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തുള്ളി വെള്ളം ഇതിൻറെ മുകളിൽ ഒഴിക്കുക എന്നതാണ് ആ ഒരു തുള്ളി വെള്ളം എങ്ങനെയാണ് ഇതിൻറെ ഇരിക്കുക എന്ന് നോക്കുക അത് ഒഴുകിപോകുന്നുണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക അത് വെച്ച് നിങ്ങൾ ഇവിടെ ശാസ്ത്രീയരീതിയിൽ കോൺടാക്ട് ആംഗിൾ നോക്കുക കോൺടാക്ട് അങ്കിൾ എങ്ങനെ നോക്കാം അത് ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം അതുമല്ലെങ്കിൽ വിടർന്ന് ഇങ്ങനെ വരാം അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കോൺടാക്ട് ആംഗിൾ അളക്കുന്നത് ഈ കോൺടാക്ട് ആംഗിൾ നിങ്ങൾക്ക് ഈ സബ്സ്ട്രേറ്റിന് ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് സ്വഭാവം ആണോ എന്ന് മനസ്സിലാക്കി തരുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും ഈ ചിത്രത്തിൽ നോക്കുക നിങ്ങൾ ചിന്തിക്കൂ ഇത് ഒരു ഇല ആണ് എന്ന് അതിൻറെ മുകളിൽ ഒരു വെള്ളത്തിന്റെ തുള്ളി വീണിട്ടുണ്ട് ഇതാണ് വെള്ളത്തിൻറെ തുള്ളി നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ നിങ്ങളുടെ സാമാന്യ ബോധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളത്തിൻറെ തുള്ളി പരന്ന് അല്ല ഇരിക്കുന്നത് എന്ന് അതിൻറെ അർത്ഥം ഈ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഇല ഹൈഡ്രോഫോബിക് ആണെന്ന് അല്ലെങ്കിൽ വെള്ളത്തിൻറെ മോളിക്യൂളുകളും ഇലയുമായി സമ്പർക്കം പുലർത്താൻ സമ്മതിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ സമ്പർക്കം പുലർത്തുന്നത് വളരെ കുറവാണ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ അതിൻറെ ആംഗിൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ ദാ ഇവിടെ ചെറിയ സംബർക്കം മാത്രമേയുള്ളൂ അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ സംബർക്കം മാത്രമേയുള്ളൂ എന്ന് ഇതിന് വിപരീതമായി ഉദാഹരണത്തിന് വെള്ളം വീണ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയി മാറും ഇവിടെ ദാ ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് പറയാൻ പറ്റും അത് ഹൈഡ്രോഫിലിക് സബ്സ്ട്രേറ്റ് ആണെന്ന് കാരണം വെള്ളം വളരെ വേഗം തന്നെ പടർന്ന് പോയിരിക്കുന്നു ഇനി ഇതിന് അടിസ്ഥാനമായി നിങ്ങൾക്ക് ഞാൻ കുറച്ച് പരീക്ഷണങ്ങൾ നിർദ്ദേശിക്കാം നിങ്ങൾ പോളി ഡി ലൈസിന്റെ കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റിൽ കൂട്ടാൻ നോക്കിയാൽ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ പറയുന്നു വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ നിങ്ങൾ തുടങ്ങുകയാണ് നിങ്ങൾ ആ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വെള്ളത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് വെള്ളത്തെ വെറുക്കുന്നതായി മാറുന്നു എന്നത് അത് ഇതുപോലെ ആയി മാറും പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് പോളി ഡി ലൈസിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഇവിടെ ഈ ഭാഗം എടുക്കുന്നതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സെൽ കൾച്ചർ രീതിയിലും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ലോകത്തിൽ പല ഭാഗത്തുള്ള പരീക്ഷണശാലകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും പരീക്ഷണശാലകൾ വിരലിലെണ്ണാവുന്ന അത്രയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ ആരും ഈ ഭാഗത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടില്ല അത് കാരണമാണ് പലപ്പോഴും പരീക്ഷണ ഫലത്തിൽ അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് പല ആൾക്കാർ ചെയ്യുന്ന പരീക്ഷണഫലങ്ങൾ തമ്മിൽ വ്യത്യാസം വരാറുണ്ട് അതിനു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ചിലരുടെ കയ്യിൽ ഗ്ലാസ് സബ്സ്ട്രേറ്റ് ഉണ്ടാവും അവിടെ ഒരു പ്രത്യേക രീതിയിൽ ആയിരിക്കും മോളിക്കൂളുകളുടെ ബന്ധം ഉണ്ടാക്കുന്നത് വേറെ ചിലയിടത്ത് വേറെ ഗ്ലാസ് സബ്സ്ട്രേറ്റ് ഉണ്ടാകും അവിടെ നേരത്തെ പറഞ്ഞ ഉചിതമായ രീതിയിൽ ആയിരിക്കില്ല സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് അത് കാരണം അവിടെ വേറെ രീതിയിലുള്ള മോളിക്കൂളുകളുടെ ബന്ധം ആയിരിക്കും ഉണ്ടാവുക ഈ വ്യത്യാസം കാരണം അവിടെയുള്ള കോൺടാക്ട് ആംഗിൾ വ്യത്യാസം വരും അപ്പോൾ ഇവയുടെ കോൺടാക്ട് ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഈ കോശങ്ങളുടെ പ്രോപ്പർട്ടി മാറുന്നു കാരണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഒരു സോൾട്ട് സൊലൂഷൻ ആണെന്ന് അതിൽ നിറച്ചു സോൾട്ട് അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളുടെ മോളിക്യൂൾസ് ആണ് ഉള്ളത് പക്ഷേ അതിൻറെ അടിസ്ഥാനം ദ്രാവക രൂപത്തിലുള്ളതാണ് നമ്മൾ സെൽ കൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന കൂടുതൽ മീഡിയവും വെള്ളത്തിൻറെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വെള്ളത്തിൻറെ അടിസ്ഥാനത്തിലാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻറെ പ്രോപ്പർട്ടി ഈ മീഡിയത്തിന്റെ മുകളിൽ വരുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കോശങ്ങൾ വരുമ്പോഴും സംഭവിക്കുക ഈ കോശങ്ങൾക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് ഇരിക്കാൻ വേണ്ടി അതിന് ആവശ്യമായ ഒട്ടിപ്പിടിക്കാനുള്ള സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഒരു ചെറിയ പാളിയായി വെള്ളവും അതിൽ വേണം അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ എടുക്കുന്നത് ഈ കാര്യങ്ങൾ പലരും ചെയ്യാറില്ല നിങ്ങൾ വ്യാവസായിക മേഖലയിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യുന്നതിന് നല്ല ഗുണമേന്മ വേണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പാലിക്കേണ്ടതാണ് നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചത് ആദ്യം നിങ്ങൾ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ചെയ്യണം അത് വെച്ച് അതിൻറെ ഉപരിതലം മനസ്സിലാക്കണം രണ്ടാമത് രണ്ടാമത്തെ പരീക്ഷണം എന്ന രീതിയിൽ കോൺടാക്ട് ആംഗിൾ അളന്നു നോക്കണം മൂന്നാമതായി ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ നിങ്ങൾ ഒരു സംയുക്തം ഈ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ അത് അഡ്സോർബ് ആയി പോകുന്നുണ്ടോ അതോ ഇതിനു മുകളിൽ ഒരു പാള ആയി നിൽക്കുകയാണോ അതോ അവിടെ കെമിക്കൽ കപ്ലിങ് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക എപ്പോഴും ഒരു സർഫസ് കെമിക്കൽ അനാലിസിസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും തുറന്നിരിക്കുന്ന ഉപരിതലത്തിൽ ഏതൊക്കെ ആറ്റം ആണ് ഉള്ളതെന്ന് അല്ലെങ്കിൽ എന്തൊക്കെ എലമെൻറ്സ് ആണ് ആ ഉപരിതലത്തിൽ ഉള്ളത് എന്ന് ഇപ്പോൾ നിങ്ങൾ പോളി ഡി ലൈസിന്റെ കാര്യം ആണ് നോക്കുന്നത് എങ്കിൽ അതിൻറെ മുകളിൽ കാർബണും നൈട്രജനും ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും നിങ്ങൾ കാണുക ഇനി ഒരു സർഫസ് അനാലിസിസ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമായ മാർഗ്ഗം നിങ്ങൾക്ക് എക്സ്പീഎസ് ചെയ്യുന്നത് ആണ് എക്സ്പീഎസ് എന്ന് വെച്ചാൽ എക്സറേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നമുക്ക് ഇവിടെ നിന്ന് തുടരാം